ഈ സർക്യൂട്ടിനെ ആകർഷകമാക്കുന്നത് ഈ ഒരു ഭാഗമാണ് അത് ഒരു സീരീസ് രജിസ്റ്ററാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൽ നിങ്ങൾക്ക് ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ വേരിയബിൾ ഔട്ട്പുട്ട് ലോഡ് കറണ്ടും ഔട്ട്പുട്ട് പവറും നിങ്ങൾക്ക് സ്വയം ക്രമീകരിക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു നല്ല വോൾട്ടേജ് റെഗുലേറ്റർ നിർമ്മിക്കാൻ കഴിയും അതിനാൽ ഈ സർക്ക്യൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ചാർജ് പമ്പുകളെക്കുറിച്ചും ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ചിരുന്നു അടിസ്ഥാനപരമായി ചാർജ് പമ്പ് നിങ്ങൾക്ക് ചില കോൺഫിഗറേഷനുകൾ നൽകുന്നു അത് എവിടെയൊക്കെ വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നു പറയുന്നു നിങ്ങളുടെ എമ്പഡഡ് സിസ്റ്റത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ കാണേണ്ട പ്രധാന കാര്യം പവർ സപ്ലൈ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം LDO ആണ് മറ്റൊരു ഭാഗം സ്വിച്ചിംഗ് റെഗുലേറ്ററാണ് ചാർജ് പമ്പ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷേ LDO മികച്ചതാണ് ഈ കോഴ്സിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വീണ്ടും അതേ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു 3 ഓപ്ഷനുകളാണ് ഉള്ളത് അതിൽ നിന്ന് ഒന്ന് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നതാണ് ഇത് വീണ്ടും അതേ പ്രശ്നത്തിലേക്ക് മടങ്ങുന്നു അതിനാൽ സ്വിച്ചിംഗ് റെഗുലേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് സാവധാനം മനസിലാക്കാം തുടർന്ന് ഈ ചാർജ് പമ്പിലേക്ക് പോകുകയും ചെയ്യാം എന്നിട്ട് അവയിൽ 3 എണ്ണം തമ്മിൽ താരതമ്യം ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ ഈ ആപ്ലിക്കേഷന് LDO ശരിയായ ചോയിസാണെന്ന നിഗമനത്തിലെത്താം മറ്റൊരു അപ്ലിക്കേഷനായി ച്ചിംഗ് റെഗുലേറ്റർ അല്ലെങ്കിൽ ചാർജ് പമ്പ് ആണ് നമുക്കുള്ളത് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് നിങ്ങൾ LDO അല്ലെങ്കിൽ സ്വിച്ചിംഗ് റെഗുലേറ്റർ അല്ലെങ്കിൽ ഇവ രണ്ടും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റഫറൻസ് വോൾട്ടേജ് Vref ആവശ്യമാണ് നിങ്ങൾക്ക് Voutൽ സ്റ്റബിലിറ്റി കൈവരിക്കണമെങ്കിൽ ഈ Vi നെ ഒരു ബോക്സായി കാണുക നിങ്ങൾക്ക് സ്റ്റബിൾ ആയ ഒരു Vout എല്ലായ്പ്പോഴും ലഭിക്കുന്നു അതായത് ഉയർന്ന ഇൻപുട്ട് വോൾട്ടേജ് എടുത്ത് കുറഞ്ഞ ഔട്ട്പുട്ട് വോൾട്ടേജ് സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വോൾട്ടേജ് റഗുലേറ്റ് ചെയ്യുന്നുവെന്ന് കരുതുക സാധാരണയായി വോൾട്ടേജ് 5 വോൾട്ട് മുതൽ 3 3 വരെയും 3 3 മുതൽ 3 0 വരെയും മാറുന്നു അതിനാൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആക്കാൻ കഴിയും ഉയർന്ന ഇൻപുട്ട് വോൾട്ടേജ് എടുത്ത് കുറഞ്ഞ ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്ന ഒരു സ്വിച്ചിംഗ് റെഗുലേറ്ററും ഇവിടെ പരിഗണിക്കാവുന്നതാണ് അത്തരമൊരു റെഗുലേറ്ററിനെ ബക്ക് കൺവെർട്ടർ എന്നും വിളിക്കാം ഔട്ട്പുട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള റഗുലേഷൻ നടത്താൻ ഇവ രണ്ടിനും ഈ വോൾട്ടേജ് റഫറൻസ് ആവശ്യമാണ് നമുക്ക് ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് മടങ്ങാം ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകില്ല എന്നാൽ ഇത്തവണ ഞാൻ ലീനിയർ റെഗുലേറ്ററല്ല സ്വിച്ചിംഗ് റെഗുലേറ്റർ നിങ്ങളെ പരിചയപ്പെടുത്താം നമുക്ക് തുടക്കത്തിൽ ഉള്ള പ്ലസ് മൈനസ് ഇറർ ആംപ്ലിഫയറിലേക്ക് പോകാം നിങ്ങൾ ഓരോ തവണയും താരതമ്യം ചെയ്യുമ്പോൾ Vref ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഞങ്ങളുടെ ഇറർ ആംപ്ലിഫയറിലേക്ക് തിരികെ പോകുന്നു അതായത് ഇവിടെ Vout ഉണ്ട് ഇവിടെ R1ഉം R2ഉം ഉണ്ട് ഇവിടെ ഈ Vref ഉം ഫീഡ്ബാക്ക് പോയിന്റും ആയി താരതമ്യം നടക്കുന്നു ഇതാണ് ഫീഡ്ബാക്ക് ഏതെങ്കിലും സ്വിച്ചിംഗ് റെഗുലേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കിയാൽ ഇത് ഒരു ഫീഡ്ബാക്ക് പോയിന്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എങ്ങനെ ഇൻപുട്ട് ഭാഗത്തേക്ക് പോകുന്നു ഞങ്ങൾ നല്ലൊരു സർക്യൂട്ടാണ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുന്നതിനായി ഞാൻ ഈ ഭാഗം ഇവിടെ നിന്ന് നീക്കംചെയ്ത് ഇവിടെ ഇടുകയാണ് അതിനാൽ ആദ്യം നമ്മൾ സ്വിച്ചിങ്ങ് റെഗുലേറ്ററിന്റെ അടിസ്ഥാന ആശയങ്ങളിലേക്ക് പോകും എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രവർത്തന രീതി നിങ്ങൾ ഒരു കപ്പാസിറ്ററിനെയോ ഇൻഡക്ടറിനെയോ എനർജൈസ് ചെയ്യുന്നു അതിനാൽ ഒരു ഇൻഡക്റ്ററിനെ എനർജൈസ് ചെയ്യാൻ പോകുന്ന ഒരു കേസ് എടുക്കാം ഒരു ഇൻഡക്റ്ററിനെ എങ്ങനെ എനർജൈസ് ചെയ്യാം എന്നതാണ് അടുത്ത ചോദ്യം അതിനാൽ എനർജൈസ് ചെയ്യേണ്ട ഒരു ഇൻഡക്റ്റർ ഇവിടെ ഇടാം ഇപ്പോൾ ഈ ഇൻഡക്റ്ററിന് എനർജി നൽകണമെങ്കിൽ അതിന് ഒരു വോൾട്ടേജ് നൽകണം അതിന് എനർജി സ്റ്റോർ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾക്ക് സീരീസ് പാസ് സർക്യൂട്ടിലേക്ക് മടങ്ങേണ്ടിവരും ഞങ്ങൾക്ക് ഇവിടെ ഒരു സീരീസ് പാസ് ഇലമൻ്റ് ഉണ്ട് എപ്പോളത്തെയും പോലെ ഞാൻ ഒരു NMOS NMOSFET ഉപയോഗിക്കുകയാണ് അതായത് n ചാനൽ MOSFET ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് അല്പം വ്യത്യസ്തമായ രീതിയിൽ ഒരു കാര്യം ചെയ്യേണ്ടിവരും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉള്ളത് ഒരു ഓസിലേറ്റർ ആണ് ബ്ലോക്ക് ഡയഗ്രം ഉപയോഗിച്ച് ഞാൻ അത് കാണിക്കാം കുറച്ചു കൂടി നന്നായി വ്യക്തമാകാൻ ഞാൻ അത് ഒന്നു കൂടി വരയ്ക്കാം ഇതൊരു ഓസിലേറ്റർ ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തു പക്ഷേ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല കാരണം ഇത് ഒരു മോസ്ഫെറ്റ് വരയ്ക്കുന്ന അടിസ്ഥാന രീതിയുടെ ലംഘനമാണ് അതിനാൽ ഈ രീതിയിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് ഗേറ്റ് ഇതാണ് സോഴ്സ് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഡ്രെയിൻ ആണ് ഒരു LDO ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഇറർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നേരിട്ട് ഗേറ്റിനെ ഡ്രൈവ് ചെയ്യുന്നു എന്നാൽ ഇവിടെ ഗേറ്റ് യഥാർത്ഥത്തിൽ സ്വിച്ച് ഓഫും ഓണുമായി മാറി മാറി കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സ്വിച്ച് അടിസ്ഥാനപരമായി കണക്റ്റ് ചെയ്യുകയും ഡിസ്കണക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഗേറ്റ് വോൾട്ടേജ് നൽകുകയോ അല്ലെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് നീക്കംചെയ്യുകയോ ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ സ്വിച്ചിംഗ് റെഗുലേറ്റർ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയതായി കരുതുക ഇവിടെ എന്തു സംഭവിക്കും ഇൻഡക്റ്റർ എനർജൈസ് ആകുന്നു അതിനാൽ എവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു അത് ഈ വഴി പോയി ലോഡിലേക്ക് പവർ നൽകുന്നു അത് ഗ്രൌണ്ടിലേക്ക് പോകുന്നു അത് തുറക്കുമ്പോഴെല്ലാം അത് സർക്കുലേറ്റ് ചെയ്യുന്നു എന്നാൽ ഞങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതുപോലെ ആണ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഒരു കേസിൽ അത് പുറമെ ലൂപ്പ് ചെയ്യുന്നു മറ്റൊന്നിൽ അത് ആന്തരിക ലൂപ്പ് ചെയ്യുന്നു ഈ ഡയോഡ് ഉള്ളതിനാൽ അതിന് സർക്യൂട്ട് അടയ്ക്കാനും എനർജി വിതരണം ചെയ്യാനും കഴിഞ്ഞു അതിനുശേഷം ആവശ്യമായ പവർ ലോഡിലേക്ക് തിരികെ നൽകുന്നു തുടക്കത്തിൽ ഈ ലൂപ്പിൽ നിന്ന് ഇതുപോലെയാണ് ലഭിച്ചത് രണ്ടാമതും സ്റ്റോർ ചെയ്തത് ലഭിച്ചു ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു വീണ്ടും ഈ ഇൻഡക്ടറിലെ സ്റ്റോറേജ് കുറയുന്നു അതിന്റെ നിലവിലെ സ്റ്റോറേജ് ശേഷി കുറഞ്ഞു ഈ സ്വിച്ച് തുറക്കുന്നു ഈ സ്വിച്ച് വീണ്ടും അടയ്ക്കുകയും വീണ്ടും ലോഡിലേക്ക് പവർ നൽകുകയും ചെയ്യുന്നു വീണ്ടും ഈ ഇൻഡക്റ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു അതിനാൽ സ്റ്റോറേജ് പ്രക്രിയയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെല്ലാം ലോഡിലേക്ക് വൈദ്യുതിയായി എത്തിക്കുന്നു നിങ്ങൾ സ്വിച്ച് തുറക്കുമ്പോൾ അടിസ്ഥാനപരമായി സ്റ്റോർ ചെയ്ത കറന്റിൽ നിന്ന് എല്ലാ കറന്റും ഡ്രോ ചെയ്യുക ഇൻഡക്റ്ററിലെ സ്റ്റോർ ചെയ്ത എനർജി കറൻ്റിൻ്റെ രൂപത്തിൽ ലോഡിലേക്ക് എത്തിക്കുന്നു അത് പിന്നെ സ്വിച്ച് ക്ലോസ് ആകുന്നു വീണ്ടും ഓൺ ആകുന്നു ഇത് തുടരുന്നു ഈ പോയിന്റ് ഒരു അനലോഗ് ഇൻപുട്ട് സെൻസിംഗായി മാത്രം പ്രവർത്തിക്കുന്നു എന്ന് ഓർമ്മിക്കുക ഈ അനലോഗ് സെൻസിംഗ് ഡിജിറ്റൽ ഓൺ ഓഫ് ആയി മാറുകയും ചെയ്യുന്നു ഈ ട്രാൻസിസ്റ്റർ സ്വിച്ചുചെയ്തു കൊണ്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അനലോഗ് ഇൻപുട്ട് കിട്ടുന്നു തുടർന്ന് അത് ഡിജിറ്റൽ സിഗ്നലായി മാറുകയും ചെയ്യുന്നു അതിന്റെ ഡ്യൂട്ടി സൈക്കിൾ നിയന്ത്രിക്കാൻ കഴിയുന്നു അത്തരമൊരു ബ്ലോക്കിനെ പൾസ് വിഡ്ത് മോഡുലേറ്റർ എന്ന് വിളിക്കുന്നു ഒരു ലീനിയർ റെഗുലേറ്ററും സ്വിച്ചിംഗ് റെഗുലേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് ഈ PWM ബ്ലോക്കിന്റെ സാന്നിധ്യമാണ് എല്ലാം എങ്ങനെ സംഭവിച്ചുവെന്ന് കാണിക്കാൻ ഒരു ചിത്രം ഞാൻ വരയ്ക്കാം ചില ലളിതമായ വേവ് ഫോമുകളിലൂടെ സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് 3 3 ആണെന്ന് കരുതുക ഇത് ഒരു ഉദാഹരണമായി കാണാം അതിനാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുകയാണ് ഈ പ്രക്രിയ തുടരുകയുമാണ് കുറച്ച് പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇത് വരയ്ക്കാം നമുക്ക് കുറച്ച് സ്റ്റബിലിറ്റി ലഭിക്കണം ഞാൻ അതിനെ കുറച്ചുകൂടി സ്റ്റീപ്പ് ആക്കാം അങ്ങനെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ചാർജ്ജ് ചെയ്യുമ്പോഴെല്ലാം ഈ ലൈൻ 1 ആണ് നിങ്ങൾ ഇവിടെ വീണ്ടും നോക്കുമ്പോൾ അത് കുറയുന്നു അതിനാൽ ഇത് കുറഞ്ഞ് കൊണ്ടിരിക്കുന്നു ഞാൻ മായ്ക്കുകയും ഇവിടെ ഇടുകയും ചെയ്യുകയാണ് അതിനാൽ അത് താഴേക്ക് പോകുന്നത് നിങ്ങൾക്കു കാണാം വീണ്ടും ഇവിടെ അത് സ്വിച്ച് ചെയ്യണം വീണ്ടും നിങ്ങൾ ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്യും ഞാൻ അത് വരയ്ക്കാം ഈ വീതി ഇവിടെ ഇങ്ങനെയാണ് അതായത് വളരെ ചെറിയ വീതി ആണ് ഇവിടെ ഒരു വീതി ഉണ്ട് ഇത് കുറഞ്ഞു വരുന്നു തുടർന്ന് ഇത് ഇവിടെ ഒരു വലിയ വീതിയാണ് കൃത്യസമയത്ത് തന്നെ ഇത് നോക്കൂ ഞാൻ ഇത് കുറച്ചുകൂടി ഇടുങ്ങിയതാക്കുകയും ഇത് കുറച്ചുകൂടി വിശാലമാക്കുകയും ചെയ്യും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് മുന്ന് സമയങ്ങളാണ് t1 t2 പിന്നെ t3 അതായത് 3 വ്യത്യസ്ത രീതിയിൽ നിരീക്ഷിക്കാൻ കഴിയും ഓരോ സമയവും വ്യത്യസ്തമായിരിക്കും അതിനാൽ ഇത് 50 ശതമാനം ഡ്യൂട്ടി സൈക്കിളിലല്ല മറിച്ച് അതിന്റെ സമയക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഈ വേവ് ഫോം എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി സമയങ്ങളിൽ ഇത് മാറുന്നു ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ സ്റ്റേബിൾ ആയി തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോയി വീണ്ടും ഇത് സജ്ജീകരിക്കാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ സമയത്തേക്ക് മാത്രം ഓണാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളു ഈ സമയത്ത് അത് ഡിസ്ചാർജ് ചെയ്യുകയും ഇൻഡക്ടറിൽ നിന്ന് നേരിട്ട് കറന്റ് നൽകുകയും ചെയ്യും അതിനാൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നില്ല നിങ്ങൾ ഇത് ഒന്നും സംഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു നേർരേഖയിൽ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ബക്ക് കൺവെർട്ടറിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഔട്ട്പുട്ടിൽ ഇതിന് ഗണ്യമായ റിപ്പിൾ ഉണ്ട് അതിനാൽ നിങ്ങളുടെ എംബഡഡ് സിസ്റ്റത്തിന് ആവശ്യമുള്ളത് അനുസരിച്ച് നിങ്ങൾ ഒന്നുകിൽ ഒരു LDO പോലുള്ള ഒരു ലീനിയർ റെഗുലേറ്റർ അല്ലെങ്കിൽ സ്വിച്ചിംഗ് റെഗുലേറ്റർ പോലുള്ള ഒരു ബക്ക് കൺവെർട്ടർ തിരഞ്ഞെടുക്കണം ഇതിന്റെയെല്ലാം വലിയ സംഗ്രഹം എന്താണ് ഇതിന്റെയെല്ലാം ഏറ്റവും വലിയ സംഗ്രഹം ഈ സ്വിച്ചിംഗ് റെഗുലേറ്റർ അനലോഗ് ഡിജിറ്റൽ എന്നിവയുടെ ഒരു കൂടിച്ചേരലാണ് എന്നതാണ് ഇത് ഒരു PWM ബ്ലോക്കിന് കാരണമാകുന്നു ഈ PWM ബ്ലോക്ക് വളരെ രസകരമായ ഒരു ബ്ലോക്കാണ് കാരണം നിങ്ങൾ ബ്ലോക്കിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോക്ക് ജനറേറ്റർ ഒരു കംപാരാറ്റർ ഓവർലാപ്പുചെയ്യാത്ത ക്ലോക്കുകൾ ഓവർലാപ്പുചെയ്യാത്ത ഡിജിറ്റൽ ഡ്രൈവിംഗ് സർക്യൂട്ടുകൾ എന്നിവ ഉണ്ടാകും സ്വിച്ച് ചെയ്ത ഔട്ട്പുട്ട് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് ഒരു സോ ടൂത്ത് ജനറേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ട്രൈയാൻക്കുലർ വേവ് ജനറേറ്ററിൽ നിന്നോ ആണ് അതിനാൽ ഇത് വളരെ സങ്കീർണ്ണമായ ഒരു ബ്ലോക്കാണ് അത് ഞങ്ങൾ നോക്കുന്നില്ല പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സ്വിച്ചിംഗ് റെഗുലേറ്ററിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നു അതിനാൽ റെഗുലേറ്ററിന്റെ സമയ പ്രതികരണത്തെക്കുറിച്ച് കുറച്ച് മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളിലേക്ക് ഇതെല്ലാം നമ്മെ എത്തിക്കുന്നു LDOയിൽ വളരെ കുറച്ച് കംപൊണന്റ്സ് മാത്രമേയുള്ളൂ കൂടുതലും ഊർജ്ജം സംഭരിക്കുന്നവ ഔട്ട്പുട്ട് ഭാഗത്ത് ഒരു കപ്പാസിറ്റർ ഉണ്ട് ഈ കപ്പാസിറ്റർ ലോ പാസ് ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുന്നു ഇത് ലോ പാസ് ഫിൽറ്റർ കപ്പാസിറ്ററാണെന്ന് കരുതുക ഇപ്പോൾ ഞങ്ങൾ റെഗുലേറ്ററിന്റെ റസ്പോൺസ് സമയത്തിലേക്ക് മടങ്ങുകയാണ് വളരെ കുറച്ച് ഘടകങ്ങളുള്ള ലളിതമായ ബ്ലോക്കാണ് LDO 0 25 മൈക്രോസെക്കന്ഡ് മുതൽ ഒരു മൈക്രോസെക്കൻഡു വരെയുള്ള റസ്പോൺസ് സമയം കിട്ടുന്നു അതിനാൽ ഇത് തീർച്ചയായും 1 മെഗാഹെർട്സ് മുതൽ 8 മെഗാ ഹെർട്സ് വരെ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് ഉയർന്ന റസ്പോൺസ് സമയം നൽകുന്നു ഇത് 4 മെഗാഹെർട്സ് വരെ ഉയർന്നേക്കാം അതേസമയം സ്വിച്ചിംഗ് റെഗുലേറ്ററിൽ ഇത് വളരെ മന്ദഗതിയിലാണ് ഒരു റസ്പോൺസ് സമയം 2 മുതൽ 8 വരെ മൈക്രോസെക്കന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും ഇത് ഡാറ്റ ഷീറ്റിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരു റെഗുലേറ്റർ ബ്ലോക്ക് നിർമ്മിക്കാൻ നോക്കുമ്പോൾ ഡാറ്റ ഷീറ്റ് നോക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ തീർച്ചയായും നോക്കാൻ താൽപ്പര്യപ്പെടുന്ന ഡാറ്റാ ഷീറ്റ് പരാമീറ്റർ ഇവയാണ് അതിനാൽ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് റസ്പോൺസ് സമയം മനസ്സിലാക്കേണ്ടതാണ് അതിനാൽ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന പ്രധാന പോയിന്റ് അതാണ് നിങ്ങൾക്ക് ഒരു പവർ സപ്ലൈ ബ്ലോക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് 3 3 വോൾട്ട് നൽകുന്നു നിങ്ങൾക്ക് 3 3 വോൾട്ട് ആവശ്യമായ ഒരു ലോഡ് ഉണ്ട് എനിക്ക് അവ രണ്ടും ബന്ധിപ്പിച്ച് ലോഡിനു വേണ്ടുന്ന വോൾട്ടേജ് നൽകേണ്ടതുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉള്ളതിനാൽ ഇത് കണക്റ്റുചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ എംബഡ് ചെയ്ത സിസ്റ്റങ്ങളെ IOT ആപ്ലിക്കേഷന് ഏറ്റവും അനുയോജ്യമായ ചോയിസാക്കി മാറ്റുന്ന രീതി എങ്ങനെ എന്നു നോക്കണം അതിനാൽ ഇത് ഒരു LDO അല്ലെങ്കിൽ ഒരു ബക്ക് കൺവെർട്ടർ പോലുള്ള സ്വിച്ചിംഗ് റെഗുലേറ്റർ ആകാം ഇത് ഒരു ചാർജ് പമ്പും ആകാം ഞങ്ങൾ അതിലേക്ക് മടങ്ങിവരും അതിനാൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നത് വീണ്ടും ഒരു ചോദ്യമാണ് ശരിക്കും ഇത് നിങ്ങൾ നോക്കേണ്ട ഒരു പ്രധാന പാരാമീറ്ററാണ് ഒരു തരത്തിലുള്ള റഗുലേഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന ആവശ്യകതകളിലൊന്നായി റസ്പോൺസ് സമയം പരിഗണിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത് ശരിക്കും ഒരു പ്രശ്നമാവുന്നത് അതാണ് ചോദ്യം റെഗുലേറ്റർ സ്റ്റെബിലിറ്റി ആണ് പ്രശ്നം റസ്പോൺസ് സമയ റെഗുലേറ്ററുകൾ നെഗറ്റീവ് ഫീഡ്ബാക്കുള്ള ക്ലോസ് ലൂപ്പ് സിസ്റ്റങ്ങളാണ് റെഗുലേറ്റർ സ്റ്റെബിലിറ്റി ഇവിടെ ഒരു പ്രധാന ആവശ്യകതയാണ് ഇത് നെഗറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം അത് ആവശ്യകതകൾ നിറവേറ്റില്ല ശരിയായ സെൻസിംഗ് നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ റെഗുലേറ്റർമാരുടെ ബാൻഡ്വിഡ്ത്ത് സ്വിച്ചിംഗ് ഫ്രീക്വൻസിക്ക് താഴെയായിരിക്കണം ഇത് പത്ത് മടങ്ങെങ്കിലും താഴെയായിരിക്കണം നമുക്ക് ഇതിനെ fsw എന്നു വിളിക്കാം അതിന്റെ ബാൻഡ്വിഡ്ത്ത് പത്ത് മടങ്ങങ്കിലും താഴെയായിരിക്കണം നിങ്ങൾ ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഇൻഡക്റ്റർ ഇടണം ഘടകങ്ങളുടെ എണ്ണവും ഇത് കൂട്ടുന്നു സ്വിച്ചിംഗ് റെഗുലേറ്ററിന്റെ ഈ മോശം പ്രകടനത്തിന്റെ ഒരു കാരണം അതായിരിക്കാം ബാൻഡ്വിഡ്ത്ത് യഥാർത്ഥത്തിൽ പരിമിതമാണ് സ്വിച്ചിംഗ് ആവൃത്തി എന്തുകൊണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ സ്വിച്ചിംഗ് ആവൃത്തി വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും ഇത് സ്മൂത്ത് അകുമോ ഇത് സ്മൂത്താക്കി നിങ്ങൾക്ക് നല്ലൊരു സിഗ്നൽ നൽകുകയും ചെയ്യും വ്യക്തതയ്ക്കായി ഞാൻ ഇത് വരയ്ക്കാം ഇത് ഉയർന്ന ആവൃത്തിയിൽ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം ജാഗിംഗ് ഉള്ള DC ലഭിക്കും എന്നാൽ ഉയർന്ന ആവൃത്തിയിൽ സ്വിച്ചുചെയ്യുന്നത് നല്ല ഓപ്ഷനല്ല സ്വിച്ചിംഗ് ലോസ്സസ് വളരെ അധികമാണ് അതിൻ്റെ ഫലമായി ഇത് കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നു ഇത് ബാറ്ററിയുടെ പ്രവർത്തന ആയുസ്സ് കുറയ്ക്കുന്നു അതിനാൽ നിങ്ങളുടെ സ്വിച്ചിംഗ് റെഗുലേറ്റർ പരിശോധിച്ച് സ്വിച്ചിംഗ് ആവൃത്തി എന്താണെന്ന് കണ്ടെത്തണം ഒരു IOT ഉപകരണം നേരിട്ട് DCയിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്നതിനാലും AC ഇല്ലാത്തതിനാലും ബാറ്ററി ലൈഫ് കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഈ അനുമാനം ശരിയായി പരിഹരിക്കപ്പെടണം മാറ്റിസ്ഥാപിക്കാനുള്ള ചെലവ് വളരെ ഉയർന്നതായതിനാൽ ബാറ്ററിയുടെ പ്രവർത്തന ആയുസ്സ് പ്രധാനമാണ് അതിനാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് അതിനാൽ സ്വിച്ചിംഗ് ആവൃത്തി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ശരിക്കും കഴിയില്ല ഇത് മനസ്സിൽ കരുതണം ലീനിയർ റെഗുലേറ്ററിനെയും സ്വിച്ചിംഗ് റെഗുലേറ്ററിനെയും കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല അറിവുണ്ട് അതിനാൽ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾ നിരവധി പാരാമീറ്ററുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ റെഗുലേറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ അത് പരിഗണിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട പാരാമീറ്ററുകളിൽ ഒന്ന് ശബ്ദമാണ് ഇത് ഒരു ഡാറ്റ ഷീറ്റ് പാരാമീറ്ററാണ് ഔട്ട്പുട്ടിലേക്ക് പവർ നൽകുന്ന ഒന്നാണ് ഈ സ്വിച്ചിംഗ് ഉപകരണം ഇതിനർത്ഥം അത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും ഓണാക്കുമ്പോഴും അത് തീർച്ചയായും വിതരണം ചെയ്യുന്നുവെന്നും അതിൽ അൽപ്പം ശബ്ദം സൃഷ്ടിക്കുന്നുവെന്നും ആണ് റെഗുലേറ്റർ യഥാർത്ഥത്തിൽ നിർമ്മിച്ച സിലിക്കണിലൂടെ ഈ ശബ്ദം എല്ലായിടത്തും വ്യാപിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സ്വിച്ചുചെയ്യുന്ന ഒരു റെഗുലേറ്ററും പാസ് ഘടകവും ഉണ്ട് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതേസമയം ഒരു LDOയിൽ അത്തരമൊരു പ്രശ്നം നിലവിലില്ല സീരീസ് പാസ് ഘടകം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന അവസ്ഥയിലായിരിക്കും PWM സിഗ്നലിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഗേറ്റ് സ്വിച്ചുചെയ്യാൻ മാത്രമാണ് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത് അതിനാൽ നിങ്ങൾ കൂടുതൽ മലിനീകരണത്തെ നേരിടേണ്ടിവരും ഇത് സ്വിച്ചിംഗ് റെഗുലേറ്ററാണെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നമാകുകയും ചെയ്യും ഇപ്പോൾ ഇത് ഞങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ നിങ്ങൾ ഒരു കേസിൽ സീരീസ് പാസ് സ്വിച്ചുചെയ്യുന്നു മാത്രമല്ല നിങ്ങൾ ഇത് എല്ലായ്പ്പോഴും ഓണാക്കി വെക്കുന്നു പവർ കൺവേർഷൻ എഫിഷൻസിയും പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തതെല്ലാം ഓർമ്മിക്കുക നിങ്ങൾ സ്വിച്ചിംഗ് റെഗുലേറ്റർ എടുക്കുകയാണെങ്കിൽ ഇത് കണക്കാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിൽ നിങ്ങൾക്ക് 10 മുതൽ 100 മില്ലിവോൾട്ട് വരെ ആകാം നിങ്ങൾ ഇത് LDO മായി താരതമ്യം ചെയ്യുക LDOയുടെ തരം അനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം 2 വോൾട്ട് വരെ ആകാം ഇത് 0 3 അതായത് 300 മില്ലിവോൾട്ടുകൾ വരെ ആകാം ഒരു ഡിഫറൻഷ്യൽ കേസിന് ഇത് ഉയർന്നതാണ് പവർ കൺവേർഷൻ എഫിഷൻസിയെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആണ് റെഗുലേറ്ററിലുടനീളമുള്ള ഡ്രോപ്പ് ഉയർന്നതാണെങ്കിൽ എഫിഷൻസിയെ മോശമാക്കും റെഗുലേറ്ററിലുടനീളം ഡ്രോപ്പ് കുറയുന്നത് എഫിഷൻസിയെ ഉയർത്തുന്നു ഇതൊക്കെയാണ് ഇവയെക്കുറിച്ചുള്ള ഹൈ ലെവൽ വ്യൂ നമുക്ക് ചില ലളിതമായ എക്സ്പ്രഷനുകളും അതിന്റെ അർത്ഥവും നോക്കാം എഫിഷൻസി ഇനിപ്പറയുന്ന രീതിയിൽ ശരിയായി സൂചിപ്പിക്കാൻ കഴിയും ഇത് ഇൻപുട്ടിൽ ലഭ്യമായ പവറിൽ നിന്ന് ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന പവർ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ലളിതമായി മാറ്റിയെഴുതാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ കാണിക്കാനും കഴിയും ഇത് വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ ഈ എക്സ്പ്രഷൻ എവിടെ നിന്ന് വരുന്നു ഇതാണ് പവർ ലോസ് റെഗുലേറ്റർ മാറുകയാണെങ്കിൽ അത് എത്രത്തോളം പവർ ലോസ് ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം സ്വിച്ചിംഗ് റെഗുലേറ്ററുകളുടെ എഫിഷൻസി 80 മുതൽ 95 ശതമാനം വരെ ഉയർന്നതായിരിക്കും അതായത് സ്വിച്ചിംഗ് റെഗുലേറ്ററിന് നല്ല എഫിഷൻസി ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് മൂല്യങ്ങൾക്ക് പകരമായി നിങ്ങൾക്ക് ശ്രമിക്കാം എഫിഷൻസി 80 മുതൽ 95 ശതമാനം വരെ ഉയർന്നേക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ LDOയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എഫിഷൻസി നൽകുന്നത് എക്സ്പ്രഷനാണ് ലോഡ് കറന്റ് iload Vi അനുസരിച്ച് എഴുതാൻ കഴിയും അതിനുള്ള കാരണം ഈ എക്സ്പ്രഷൻ വഴി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ക്വിസൻറ് കറന്റ് അല്ലെങ്കിൽ ഗ്രൌണ്ട് കറന്റ് കണ്ടു പിടിക്കാൻ പോകുകയാണ് ഈ പദം ഈ തിയറെറ്റിക്കൽ എഫിഷൻസി നിങ്ങൾക്ക് പരമാവധി നേടാൻ കഴിയും ക്ഷമിക്കണം നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം എഫിഷൻസി എന്നു പറയാം സാധ്യമായ പരമാവധി എഫിഷൻസി ഇപ്പോൾ ഇത് എല്ലായ്പ്പോഴും തിയറെറ്റിക്കൽ എഫിഷ്യൻസിയേക്കാൾ കുറവാണ് കുറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് എഫിഷ്യൻസി മെച്ചപ്പെടുന്നുവെന്ന് കാണാം കുറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് എഫിഷൻസി മെച്ചപ്പെടുന്നു മിക്കപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന നിരവധി ഡാറ്റ ഷീറ്റ് പരാമീറ്ററുകൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി റിവൈസ് ചെയ്തിരിക്കുന്നു അതിനാൽ അത് വളരെ നിർണായകമാണ് നിങ്ങൾ എളുപ്പത്തിനായി ഒരു 5 വോൾട്ട് ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട് ഞാൻ 2 5 വോൾട്ടായി എടുക്കാം നിങ്ങൾക്ക് കുറച്ച് എഫിഷൻസി ലഭിക്കുമെന്ന് കാണാൻ കഴിയും എഫിഷൻസി എങ്ങനെ കണക്കാക്കാമെന്ന് നിങ്ങൾക്കറിയാം ഒരേ ഔട്ട്പുട്ടിനായി നിങ്ങൾ 3 3 വോൾട്ട് എടുക്കുന്നുവെന്ന് ഇപ്പോൾ കരുതുക ആദ്യ കേസിൽ എഫിഷൻസി 50 ശതമാനവും ഈ കേസിൽ 75 ശതമാനവുമാണെന്ന് നിങ്ങൾക്ക് കാണാം അതിനാൽ ഡ്രോപ്പ് കുറയുമ്പോൾ എഫിഷൻസി മെച്ചപ്പെടുന്നു ഞങ്ങൾ ഇവിടെ ഒരു പ്രധാന അനുമാനം നൽകി iload ഗ്രൌണ്ട് കറന്റിനേക്കാൾ വളരെ വലുതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ IOT അപ്ലിക്കേഷനുകൾ എടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ അത് കാണാൻ കഴിയും ഇവിടെ യഥാർത്ഥത്തിൽ ചില സമയത്ത് സെൻസിംഗ് നടക്കുകയും ചില സമയത്ത് സ്ലീപ് അവസ്ഥയിലും ആയിരിക്കും ഇവിടെ ഡ്യൂട്ടി സൈക്കിളുകൾ സാധാരണയായി ഒരു ശതമാനം ആയിരിക്കും നിങ്ങൾ റെഗുലേറ്റർ ഷട്ട് ഡൌൺ ചെയ്യുമ്പോൾ iQ ഒരു ഡോമിനൻ്റ് സംഖ്യയായി മാറുന്നു നിങ്ങൾ പവർ സപ്ലൈ രൂപകൽപ്പനയ്ക്കായി പോകുകയാണെങ്കിൽ ഈ ഗ്രൌണ്ട് ക്വിസന്റ് കറന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് താരതമ്യപ്പെടുത്താനാവില്ല ഇത് നിങ്ങൾ കൂടുതൽ സമയം ഉപയോഗിക്കാൻ പോകുന്നില്ല IOT ഉപകരണം പലപ്പോഴും സ്ലീപ്പ് മോഡിലാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡ്യൂട്ടി സൈക്കിളുകൾ ഒരു ശതമാനത്തിൽ കുറവാണ് അതിനാൽ ആരംഭത്തിൽ ഇത് ഒരു ഡോമിനൻ്റ് സംഖ്യയായി മാറുന്നു അതിനാൽ ഈ സിസ്റ്റത്തിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന റെഗുലേറ്ററുകളെ ശ്രദ്ധിക്കുക LDOക്ക് ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ക്വിസന്റ് കറന്റ് ഉണ്ട് അതേ സമയം നിങ്ങൾ ഇപ്പോഴും ഈ റെഗുലേറ്ററുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുവാൻ കാരണം അവ വിലകുറഞ്ഞതും നോയിസ് കുറവായതും കൊണ്ടാണ് ഇവയെല്ലാം ഇതിന്റെ പ്രധാന ഗുണങ്ങളാണ് ഇതിനെക്കുറിച്ചും ഈ ലോഡ് കറന്റിനെക്കുറിച്ചും ഞങ്ങൾ പരാമർശിച്ചിരുന്നു അതിനാൽ ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മാർഗം എന്താണെന്നാൽ അവർ ഒന്നിലധികം LDOകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു LDO വളരെ ചെറിയ ഉപകരണമായതിനാൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ ലോഡ് സ്പ്ലിറ്റിംഗ് ചെയ്യുന്നു നിങ്ങളുടെ LDOയിൽ നിന്ന് മികച്ച എഫിഷ്യൻസി കിട്ടുന്നു ഇത് ലളിതമായി അർത്ഥമാക്കുന്നത് എന്താണെന്നാൽ നിങ്ങൾക്ക് ഒരു പവർ സോഴ്സ് ഉണ്ടെന്നാണ് ഇത് 5 വോൾട്ട് ആണെന്ന് കരുതുക നിങ്ങൾ ഒരു LDO ഉപയോഗിക്കുകയും കുറച്ച് ലോഡുകൾ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ ലഭ്യമായ അതേ 5 വോൾട്ടുകളും നിങ്ങൾ എടുക്കുകയും അത് മറ്റൊരു LDO യിലേക്ക് കൊടുക്കുകയും മറ്റ് ലോഡുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ രീതിയിൽ ഇത് 3 വോൾട്ട് ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ഒരുമിച്ച് LDOയുടെ എഫിഷൻസി കുറയുന്നു ഇതും ഒരു LDO ആണ് അതിനാൽ LDOകൾ എഫിഷൻസി കുറയ്ക്കുന്നുവെന്ന് ഞാൻ പറയും എന്നാൽ ലോഡുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് മികച്ച എഫിഷൻസിക്ക് കാരണമായേക്കാം മാത്രമല്ല ഇത് രൂപകൽപ്പനയ്ക്ക് അനുയോജ്യവുമാണ് അതിനാൽ ഒന്നൊന്നായി മാത്രമല്ല അവയിൽ ഒന്നിലധികവും തിരഞ്ഞെടുക്കാം അതിനാൽ കമ്പോണെൻ്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രധാന വശം ഇതാണ് അതിനാൽ ലീനിയർ റെഗുലേറ്ററുകളും സ്വിച്ച് റെഗുലേറ്ററുകളും തമ്മിൽ നല്ല താരതമ്യം ചെയ്യാം ലീനിയർ റെഗുലേറ്ററുകളിൽആയിരിക്കണം ഇത് ബക്ക് കൺവെർട്ടറുകൾക്ക് മാത്രം അപ്ലികബിൾ ആണ് അതിനർത്ഥം ഈ സാഹചര്യത്തിൽ ഇത് ഫ്ലെക്സിബിൾ ആണെന്നാണ് അതിനാൽ മറ്റൊരു കാര്യം അതിന്റെ വില ശരിക്കും കുറവാണ് എന്നതാണ് അത് ഗൌരവതരവുമാണ് സീരീസ് പാസിന് എല്ലായ്പ്പോഴും പെട്ടെന്നുള്ള പ്രതികരണമുണ്ടെങ്കിലും എഫിഷൻസി മോശമാണ് നോയിസ് ഒരു പ്രധാന കാര്യമാണ് നോയിസ് കൂടുതലാണെങ്കിൽ അത് വേഗത്തിൽ പ്രതികരിക്കില്ല സാധാരണയായി എഫിഷൻസി 95 ശതമാനം വരെ ഉയർന്നേക്കാം ഇത് 85 ശതമാനത്തിൽ താഴെയാകരുത് ലീനിയർ വേഴ്സസ് സ്വിച്ചിംഗ് റെഗുലേറ്ററിന്റെ ഒരു അവലോകനമാണിത് നിങ്ങൾ പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ IOT സിസ്റ്റങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ഒരു ചോയിസും ഇല്ല നിങ്ങൾക്ക് LDOകൾ മാത്രമുള്ള അല്ലെങ്കിൽ സ്വിച്ച് ബക്ക് കൺവെർട്ടറുകൾ അല്ലെങ്കിൽ ബസ് കൺവെർട്ടറുകൾ മാത്രമുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ സിസ്റ്റവുമായി കോ എക്സിസ്റ്റ് ചെയ്യണം IOT ബോർഡ് ആണ് എംബഡഡ് സിസ്റ്റം നിങ്ങളുടെ IOT ആപ്ലിക്കേഷനായുള്ള ബോർഡാണ് അതിനാൽ ഇത് രണ്ട് തരത്തിലുള്ള റെഗുലേറ്ററുമായും കോ എക്സിസ്റ്റ് ചെയ്യണം ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും യുക്തിസഹമായ കാര്യം എനിക്ക് എന്തുചെയ്യാൻ കഴിയും ഇത് എങ്ങനെ മിക്സ് ചെയ്യാം എന്നതാണ് സ്വിച്ചിംഗ് റെഗുലേറ്ററുകളുള്ള ലീഡ് ലൈനർ റെഗുലേറ്ററുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം മിക്കപ്പോഴും നിങ്ങളുടെ എംബഡഡ് സിസ്റ്റം ഇതിൽ നിന്ന് എടുത്തേക്കാം ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റമായിരിക്കും ഞങ്ങൾ സൂചിപ്പിച്ച ഗേറ്റ് വേ പോലെ അൽപ്പം വലുതാണ് എംബഡഡ് സംവിധാനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ ഒന്നിലധികം ലെഡ് ആസിഡ് ബാറ്ററികളിൽ നിന്നോ പവർ ലഭിക്കും നമുക്ക് ഒരു കേസ് എടുക്കാം നിങ്ങൾക്ക് എങ്ങനെ ഇവയുമായി പൊരുത്തപ്പെടാമെന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം അത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നേട്ടത്തിലേക്ക് വരും അതിനാൽ നമുക്ക് ഡ്രോയിംഗ് ബോർഡിലേക്ക് പോകാം ഒരു ബാറ്ററിയുടെ കാര്യം എടുക്കുക ഇത് നിങ്ങൾക്ക് 24 വോൾട്ട് നൽകുന്ന ബാറ്ററിയാണെന്ന് പറയാം 4 വോൾട്ട് ഉത്പാദിപ്പിക്കാൻ എനിക്ക് താൽപ്പര്യമുണ്ട് അതിനാൽ ഞാൻ ലളിതമായി വരയ്ക്കാം ഇതാണ് ബാറ്ററി സോഴ്സ് ഞാൻ ഇത് ഒരു ബക്ക് കൺവെർട്ടറിലേക്ക് നൽകും എനിക്ക് ധാരാളം നോയ്സും റിപ്പിളുമുള്ള 2 4 വോൾട്ടേജ് ലഭിക്കും ഈ വോൾട്ടേജ് നോയ്സും റിപ്പിളും സഹിക്കാൻ കഴിയുന്ന ലോഡുകളിലേക്ക് ഞാൻ ബന്ധിപ്പിക്കും എന്നാൽ ഞാൻ ഇത് 2 4 എടുത്ത് ഇപ്പോൾ ഒരു LDOയുമായി ബന്ധിപ്പിക്കുകയാണ് ഞാൻ 2 4 ജനറേറ്റുചെയ്യും ചില ലോഡുകൾക്ക് 2 2 അല്ലെങ്കിൽ 1 8 വോൾട്ട് വേണ്ടി വരും ഇപ്പോൾ ഏത് തരത്തിലുള്ള ലോഡുകളിലേക്കാണ് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക ഡിജിറ്റൽ ഡൊമെയ്നിലെ എന്തും ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് പറയാം നിങ്ങൾക്ക് ഒരു ക്ലോക്ക് എഡ്ജ് ഉണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിന്റെ നിരവധി ഭാഗങ്ങൾ ഓണാകും തുടർന്ന് നിങ്ങൾക്ക് ലോഡ് കണക്റ്റുചെയ്യാനമാകും ഇത് ഏതെങ്കിലും ഡിജിറ്റൽ ലോഡുകളാകാം ലാപ്ടോപ്പുകളും ഹാൻഡ്ഹെൽഡുകളും സാധാരണയായി റിപ്പിളുകളെ ബാധിക്കില്ല അവർ ലോജിക് ലെവലുകൾ മാത്രം തിരയുന്നതിനാൽ അവർക്ക് ഇത് സഹിക്കാൻ കഴിയും അതിനാൽ അവർ അടിസ്ഥാനപരമായി കുറഞ്ഞ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു മാത്രമല്ല അവ വളരെ ഉയർന്ന വേഗതയിൽ മാറുകയും ചെയ്യുന്നു നോയ്സും റിപ്പിളുമുള്ള ഇൻപുട്ട് എടുക്കുന്നതിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഇപ്പോൾ ഒരു LDO എടുക്കുകയാണെങ്കിൽ അത് അനലോഗ് ലോഡുകളായിരിക്കാം ഇത് സെൻസറുകളാകാം പ്രധാനമായും സെൻസറുകൾ അനലോഗ് ആണ് നോയ്സി സിഗ്നലുകളൊന്നും ഇതിന് എടുക്കാൻ കഴിയില്ല ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ സപ്ലൈ വളരെ ക്ലീൻ ആയിരിക്കണം അതിനാൽ 1 8 വോൾട്ടിന്റെ ക്ലീൻ ഔട്ട്പുട്ട് സിഗ്നൽ ആവശ്യമാണെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ലോ റിപ്പിൾ ചേർക്കാനും കഴിയും അതിനാൽ മുഴുവൻ സിസ്റ്റവുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെന്നതാണ് ഇതിന്റെ ഗുണം ഞാൻ ഇവിടെ കുറച്ച് ആഴത്തിൽ പോകട്ടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ പവർ സപ്ലൈ ബ്ലോക്കിന്റെ രൂപകൽപ്പനയിലെ ഒരു പ്രധാന പോയിന്റായി ഇത് എടുക്കുക LDOയ ലേക്ക് വരുന്നത് ധാരാളം റിപ്പിളും നോയ്സും ഉള്ള നിഗ്നൽ ആണെങ്കിലും ഒരു മാജിക് വഴി നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു DC ഔട്ട്പുട്ട് ലഭിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നേടിയതെന്നും ഈ LDOയുടെ ഔട്ട്പുട്ടിൽ ഒരു നല്ല DC സിഗ്നൽ ലഭിക്കാൻ നിങ്ങൾ എന്ത് പാരാമീറ്ററുകൾ കാണണമെന്നും നോക്കാം അതിനർത്ഥം നിങ്ങൾ പാരാമീറ്ററുകൾ നോക്കേണ്ടതുണ്ട് അത് റിപ്പിളും നേയ്സും അടങ്ങിയ ഇൻപുട്ട് എടുക്കുന്നതിലൂടെ ഈ ഗുണം നിങ്ങൾക്ക് നൽകും കൂടാതെ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിൽ ഒരു DC സൃഷ്ടിക്കുകയും ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇതിനർത്ഥം സംയോജനം നടക്കാൻ പോകുന്നു എന്നാണ് എംബഡഡ് സിസ്റ്റത്തിന് മറ്റ് മാർഗമില്ലെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇതിന് ഒരു ബാറ്ററി ഉപയോഗിച്ച് അത് ഓടിക്കാൻ കഴിയും ഇതിന് ബാറ്ററി ഡ്രൈവർ ആകാൻ കഴിയും ഇൻപുട്ട് കറന്റ് ഔട്ട്പുട്ട് കറന്റ് എന്നിങ്ങനെയുള്ള രണ്ട് കറന്റുകൾ ഉണ്ട് നിങ്ങൾ ലീനിയർ റെഗുലേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു അത് ക്വിസെന്റ് കറൻറ് ആണ് ഞാൻ അത് മാറ്റിയെഴുതട്ടെ ക്വിസെന്റ് കറന്റ് ഒരു പ്രധാന കാര്യമാണ് ഇതിനെ ഗ്രൌണ്ട് കറന്റ് എന്നും വിളിക്കുന്നു ചില ആളുകൾ ക്വീസന്റ് കറന്റ് എന്ന പദം ഉപയോഗിക്കുന്നു ചിലർ ഇതിനെ ഗ്രൌണ്ട് കറന്റ് എന്ന് പരാമർശിക്കുന്നു ഇത് പൂജ്യമല്ലാത്ത ഒന്നാണ് അതിനാൽ ഈ സുപ്രധാന പാരാമീറ്ററിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇത് നോക്കേണ്ടതുണ്ട് നിങ്ങൾ ബാറ്ററി ലൈഫും നോക്കേണ്ടതുണ്ട് അതിനാൽ നിലവിലെ എഫിഷൻസി ղiioutiioutiloadiq ചില ആളുകൾ Iground എന്നും പറയുന്നു ഈ സമവാക്യത്തിൽ നിന്ന് ഞങ്ങൾ കണ്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പ്രധാന കാര്യം ഒന്ന് ഇത് പൂജ്യമല്ല ഇത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അടിസ്ഥാനപരമായി അതിനർത്ഥം ലോഡ് കറന്റുകൾ ഉയർന്നതാണെങ്കിൽ അതായത് load ഔട്ട്പുട്ട് ലോഡ് കറന്റ് വളരെ ഉയർന്നതാണെങ്കിൽ ആയുസ്സ് ആശ്രിതമാണ് എന്നതാണ് ബാറ്ററി ലൈഫ് സമയം ലോഡ് കറന്റിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് ലോഡ് കറന്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ഇത് ലോഡുചെയ്യുന്നില്ലെങ്കിൽ ലോഡുകൾ എല്ലായ്പ്പോഴും ഓഫാണെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ ഒരു ശതമാനത്തിൽ താഴെയാണെന്നതാണ് പ്രധാന കാര്യം അപ്പോൾ ഗ്രൌണ്ട് കറന്റ് പ്രധാനമാണ് ബാറ്ററിയുടെ ലൈഫ് ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് നിരവധി ഇവന്റുകളിൽ സ്വിച്ചുചെയ്യുന്ന ലോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ആധിപത്യം പുലർത്തുന്ന നിരവധി സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് വളരെ ചെറിയ സംഭവങ്ങളുണ്ടെങ്കിൽ നോഡ് സ്ലീപ് സമയത്തെ അപേക്ഷിച്ച് യഥാർത്ഥത്തിൽ എത്ര തവണ വരുന്നു എന്നത് നിങ്ങൾ കണക്കിലെടുക്കണം അതിനാൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ ആയുസ്സ് ബാറ്ററിയുടെ ആമ്പിയർ അവറായി കണക്കാക്കാം ഇത് ബാറ്ററിയുടെ കപ്പാസിറ്റിയല്ലാതെ മറ്റൊന്നുമല്ല ഇത് ആമ്പിയർ അവറിനെ ലോഡ് കറന്റ് കൊണ്ട് ഹരിക്കുന്നു മൊത്തത്തിലെ കറന്റ് Iload ആണ് നിങ്ങൾ അതിൻ്റെ ആവറേജ് എടുക്കണം അല്ലെങ്കിൽ ആമ്പിയർ അവറിൽ ബാറ്ററിയുടെ കപ്പാസിറ്റി iload plus iq ആവറേജ് കൊണ്ട് ഹരിക്കാം അല്ലെങ്കിൽ ക്വിസ്റ് കറന്റ് അതിനാൽ നിങ്ങൾ ലോഡ് ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ബക്ക് കൺവെർട്ടറും LDOയും തമ്മിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വയ്ക്കുക നിങ്ങൾക്ക് ഒന്നും പറയാനാകില്ല എന്നതിന്റെ ഒരു ചെറിയ ചിത്രം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ RL എടുക്കുന്ന പരമാവധി കറൻറ് ആണ് അത് ഒന്നുകിൽ എടുക്കുന്നു അല്ലെങ്കിൽ അത് ഒന്നും എടുക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ x ആക്സിസിൽ സിസ്റ്റത്തിന്റെ പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ അതായത് 0 മുതൽ ആരംഭിക്കും ഇതിന് 1 വരെ പോകാം ചെറിയ അളവിലുള്ള കറന്റ് എടുക്കാർ സിസ്റ്റം യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്ന സമയം ഉയർന്നതാണ് അത് ഇതുപോലെ താഴുകയും ചെയ്യും പല ഉപകരണങ്ങളും യഥാർത്ഥത്തിൽ പരമാവധി ലോഡ് കറന്റ് എടുക്കുന്നില്ലെന്ന് ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നു അവർ ഗണ്യമായ സമയവും ഐഡിയലായി ചെലവഴിക്കുന്നതായി കാണാം ഇവിടെയാണ് ഗ്രൌണ്ട് കറന്റ് പ്രധാനമാകുന്നത് ഇത് പല കാര്യങ്ങളിലും ശരിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കൈയ്യിൽ മിക്കപ്പോഴും ഫോൺ കാണാറുണ്ട് നിങ്ങൾക്ക് കോളുകൾ ലഭിക്കുന്നില്ല പക്ഷേ മിക്യ സമയവും നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുന്നു ഒന്നോ രണ്ടോ കോളുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെങ്കിലും ബാറ്ററി ചാർജ് 30 ശതമാനം അല്ലെങ്കിൽ 40 ശതമാനം വരെ പൂർണ്ണമായും ചാർജ് ഡ്രയിൻ ആയതായി നിങ്ങൾക്ക് കാണാം അതിനാൽ ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ശരിക്കും ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു കഥയാണ് ക്വസന്റ് കറന്റ് ഗ്രൌണ്ട് കറന്റ് അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നു കുറഞ്ഞ ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട് വളരെയധികം നന്ദി